സുപ്രഭാതം എഞ്ചിനീയറിംഗ് മെട്രോളജിയിലെ ലബോറട്ടറി സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്ന അടുത്ത ഉപകരണം ത്രെഡ് ഗേജ് അല്ലെങ്കിൽ പിച്ച് ഗേജ് ആണ് യഥാർത്ഥ ഉപകരണം ഇവിടെ കാണിക്കുന്നതിന് മുമ്പ് ഈ സ്ക്രൂ ത്രെഡ് പദങ്ങൾ നമുക്ക് ഓർമ്മിക്കാം ഇതാണ് സ്ക്രൂ ത്രെഡ് പദങ്ങൾ ഇവിടെ നമുക്ക് പ്രധാന വ്യാസം ചെറിയ വ്യാസം കുറഞ്ഞ വ്യാസം പിച്ച് വ്യാസം ഉണ്ട് ശരി റൂട്ടും ക്രെസ്റ്റും ഉണ്ട് ട്രഫും ക്രെസ്റ്റും ഉണ്ട് 2 റൂട്ട് അല്ലെങ്കിൽ 2 ക്രെസ്റ് തമ്മിലുള്ള ദൂരം പിച്ച് എന്നറിയപ്പെടുന്നു പിച്ച് യഥാർത്ഥത്തിൽ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിനൊപ്പം ഒരു റൊട്ടേഷനോടുകൂടി അതിൽ ഒരു പൂർണ്ണ ഭ്രമണം 360 ഡിഗ്രി റൊട്ടേഷൻ ആണ് നമ്മുടെ ത്രെഡ് എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമ്മുടെ നട്ട് എത്രത്തോളം മുന്നോട്ട് പോകുന്നു അതാണ് നമ്മളുടെ പിച്ച് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇതിനെ സ്ക്രൂവിന്റെ ഷാംഫർ ആംഗിൾ എന്ന് വിളിക്കുന്നു നമുക്ക് ഇവിടെ വിവിധ ആംഗിൾ ഉണ്ട് ഇതിനെ ഹെലിക്സ് ആംഗിൾ ഇതിനെ ത്രെഡ് ആംഗിൾ എന്ന് വിളിക്കുന്നു ഈ ആംഗിൾ ഹെലിക്സ് ആംഗിൾ ഈ 2 ത്രെഡ് ആംഗിൾ ആണ് ത്രെഡിന്റെ ആഴം റൂട്ടും ക്രെസ്റ്റും തമ്മിലുള്ള ദൂരമാണ് പ്രധാന വ്യാസം ത്രെഡിന്റെ സാങ്കൽപ്പികമായ ഏറ്റവും വലിയ വ്യാസമാണ് തുടർന്ന് ചെറിയ വ്യാസം ഒരു സാങ്കൽപ്പിക ചെറിയ വ്യാസമാണ് വലുതും ചെറുതുമായ വ്യാസങ്ങൾക് ഇടയിലുള്ള സൈദ്ധാന്തിക വ്യാസമാണ് പിച്ച് വ്യാസം അപ്പോൾ നമുക്ക് ഹെലിക്സ് ആംഗിൾ ഉണ്ട് അത് നേരായ ത്രെഡിലാണ് നേരായ ത്രെഡിലുള്ള കോണാണ് ഇത് പിച്ച് ലൈനിൽ ത്രെഡിന്റെ ഹെലിക്സ് അക്ഷവുമായി ഉണ്ടാക്കുന്നത് ഇത് ഹെലിക്സ് ആംഗിൾ ആണ് അടുത്തതായി ഞാൻ എന്റെ ഗേജിലേക്ക് വരുന്നു ഈ സ്ക്രൂ ഗേജ് ഇതാണ് ഞങ്ങളുടെ സ്ക്രൂ ഗേജ് ഞാൻ ഇത് തുറന്നാൽ ഫീലർ ഗേജുമായി വളരെ സാമ്യമുള്ള വിവിധ ലീഫുകൾ നിങ്ങൾ ഇവിടെ കാണും എന്നാൽ ഓരോ ലീഫിന്റെയും കനം തുല്യമാണ് പക്ഷേ വ്യത്യസ്ത പിച്ചുകൾ ഉണ്ട് ത്രെഡിന്റെ വ്യത്യസ്ത പിച്ചുകൾ പ്രൊഫൈൽ സമാനമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു മെട്രിക് ആണ് ഇത് മെട്രിക് ത്രെഡ് ഗേജ് നമുക്ക് മെട്രിക് ത്രെഡ് ഗേജ് ആക്മി ത്രെഡ് ഗേജ് എന്നിട്ട് വ്യത്യസ്ത തരം ത്രെഡിനായി വൈറ്റ്വർത്ത് ത്രെഡ് ഗേജ് നമുക്ക് വ്യത്യസ്ത ത്രെഡ് ഗേജുകൾ നൽകാം 25 മുതൽ 2 5 മില്ലീമീറ്റർ വരെ പിച്ച് ഉള്ള ഒരു മെട്രിക് ത്രെഡ് ഗേജാണിത് ഇവിടെ ഏറ്റവും ചെറിയ ലീഫിന് 0 25 മില്ലിമീറ്റർ പിച്ച് ഉണ്ട് ഏറ്റവും വലിയ ലീഫ് 2 5 മില്ലീമീറ്ററാണ് ഈ ഫീലർ ഗേജ് അല്ലെങ്കിൽ ത്രെഡ് ഗേജ് വളരെ വേഗത്തിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വളരെ പെട്ടെന്നുള്ള അനുമാനങ്ങൾ ഈ ഫീലർ ഗേജിന് വിടവ് എന്താണെന്ന് നമ്മളോട് പറയാൻ കഴിയും നമുക്ക് മറ്റ് പല വഴികളിലൂടെയും വിടവ് അളക്കാൻ കഴിയും വിടവ് വലുതാണെങ്കിലോ നമുക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിക്കാം മറ്റ് ചില രീതികളും ഉണ്ട് മറ്റ് മെട്രോളജിക്കൽ രീതി ഉപയോഗിച്ച് നമുക്ക് ത്രെഡിന്റെ പിച്ച് അളക്കാൻ കഴിയും പക്ഷേ ത്രെഡ് ഗേജ് നിങ്ങൾക്ക് വേഗത്തിൽ പിച്ച് അളവ് നൽകുന്ന ഒരു ഉപകരണമാണ് എനിക്ക് ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടെന്ന് കാണാം ഞാൻ ഈ സ്ക്രൂ ഗേജ് പ്രയോഗിക്കും അതിനാൽ ഏത് ലീഫാണ് ഇവിടെ ശരിയായി യോജിക്കുന്നതെന്ന് ഞാൻ ശ്രമിക്കാം ഈ സ്പാർക്ക് പ്ലഗിന് മെട്രിക് തരത്തിലുള്ള പ്രൊഫൈൽ മാത്രമേ ഉള്ളൂവെന്ന് എനിക്കറിയാം ഞാൻ ഇത് പരീക്ഷിച്ചുനോക്കാം ഈ വലുപ്പം 1 1 മില്ലീമീറ്റർ പിച്ച് ആണ് അതിനാൽ 1 1 മില്ലീമീറ്റർ അല്പം വലുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ എന്റെ സെറ്റ് ഗേജിന്റെ ലീഫിലെ പിച്ച് അല്പം വലുതാണ് നമുക്ക് 1 മില്ലീമീറ്റർ ശ്രമിക്കാം ഇത് നല്ല ഫിറ്റ് ആണെന്ന് തോന്നുന്നു ഇത് ശരിയായി ഘടിപ്പിച്ചിരിക്കുന്നു ഇത് സ്ഥിരീകരിക്കുന്നതിന് ഗോനോ ഗോ GO NO GO ഗേജുകളുടെ റൂൾ ഉപയോഗിക്കും ഇത് 1 മില്ലീമീറ്റർ ആണെന്ന് ഞാൻ കരുതുന്നു ഈ സ്പാർക്ക് പ്ലഗിന്റെ ഈ സ്ക്രൂവിന്റെ പിച്ച് 1 മില്ലീമീറ്റർ മാത്രമാണ് 9 മില്ലീമീറ്ററും ഉപയോഗിച്ച് ഞാൻ ഇത് സ്ഥിരീകരിക്കും 0 9 മില്ലീമീറ്റർ അല്പം ചെറുതാണെന്ന് നിങ്ങൾക്ക് കാണാം 1 മില്ലീമീറ്ററാണ് ഇവിടെ ശരിയായ പിച്ച് ത്രെഡ് ഗേജ് ചിലപ്പോൾ പിച്ച് ഗേജ് എന്നും അറിയപ്പെടുന്നു എന്നിരുന്നാലും മൈക്രോമീറ്ററിനെ സ്ക്രൂ ഗേജ് എന്നും വിളിക്കുന്നു ഏതെങ്കിലും സ്ക്രൂ ത്രെഡിന്റെ പിച്ച് അല്ലെങ്കിൽ ലീഡ് അളക്കാൻ ഇത് ഉപയോഗിക്കുന്നു സ്ക്രൂയിലോ ടാപ്പേർഡ് ദ്വാരത്തിലോ ഉള്ള ഒരു ത്രെഡിന്റെ പിച്ച് നിർണ്ണയിക്കാൻ ഒരു റഫറൻസ് ഉപകരണമായി ത്രെഡ് പിച്ച് ഗേജുകൾ ഉപയോഗിക്കുന്നു ആന്തരികമോ ബാഹ്യമോ ആയ ത്രെഡുകൾ അളക്കാൻ ഇത് ഉപയോഗിച്ചേക്കാം നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഉപകരണങ്ങളിൽ ഒന്നാണിത് ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്ന അടുത്ത ഉപകരണം സ്പിരിറ്റ് ലെവൽ ആണ് ഉപരിതലങ്ങൾ തിരശ്ചീനമാണോ ലംബമാണോ അല്ലെങ്കിൽ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ലെവൽ ഉപകരണമാണ് സ്പിരിറ്റ് ലെവൽ ഇത് മരപ്പണിക്കാർ കൽപ്പണിക്കാർ അല്ലെങ്കിൽ ബ്രിക്ക്ലേയർ ബ്രിക്ക് ലൈൻ പരിശോധിക്കുന്നതിന് മതിൽ നേരെയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്നു മെക്കാനിക്കൽ മെട്രോളജിക്കൽ ലാബിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഇവിടെയുള്ള ഈ സ്പിരിറ്റ് ലെവൽ 12 ഇഞ്ച് സ്പിരിറ്റ് ലെവലാണ് നീളം 12 ഇഞ്ച് ഇതിന് വിവിധ ഘടകങ്ങളുണ്ട് ഇതിന് വോയിലിൽ ഒരു കുമിളയുണ്ട് ഈ മുഴുവൻ ഘടകത്തെയും വോയിൽ എന്ന് വിളിക്കുന്നു ഈ സിലിണ്ടറിൽ നമുക്ക് ഈ ബബിൾ ഉണ്ട് ഇത് ഒരു വിസ്കസ് ദ്രാവകമാണ് ഈ ദ്രാവകം പൊതുവെ എത്തനോൾ അല്ലെങ്കിൽ നിറമുള്ള എന്തും ആണ് ശരി കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള ഒരു ദ്രാവകമാണിത് ഇത് സാധാരണയായി എത്തനോൾ പോലുള്ള ആൽക്കഹോളാണ് ഇത് നിറമുള്ളതാണ് കുമിള മധ്യത്തിലാണോ അല്ലയോ എന്ന് ഒരാൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഈ സ്പിരിറ്റ് ലെവൽ താപനിലയോട് സംവേദനക്ഷമമാണ് മൈനസ് 20 മുതൽ 60 വരെയുള്ള താപനിലയോട് ഇത് സംവേദനക്ഷമമാണ് അതിനാൽ ഇത് മൈനസ് 20 ℃ മുതൽ 60 വരെയാണ് യഥാർത്ഥത്തിൽ ഈ ദ്രാവകം സ്പിരിറ്റ് എന്നും അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ഇതിനെ സ്പിരിറ്റ് ലെവൽ എന്ന് വിളിക്കുന്നത് ഇത് നിറമുള്ളതാണ് കൂടാതെ ഒരു തിളക്കമാർന്ന റിഫ്ലക്ടറും വോയ്ലിനു പിന്നിൽ സൂക്ഷിക്കുന്നു പ്രകാശത്തിന് കീഴിൽ അത് നിരീക്ഷകന് വ്യക്തമായി കാണാൻ കഴിയും പ്രവർത്തനത്തിലായിരിക്കുമ്പോൾ സ്പിരിറ്റ് ലെവലിൽ ഒരു ചെറിയ തത്ത്വമുണ്ട് ഇത് നീക്കുമ്പോൾ ബബിൾ സ്ഥാനം മാറ്റുന്നതായി നിങ്ങൾക്ക് കാണാം കൂടാതെ ലംബ ലെവലിനുള്ള 2 വോയ്ലുകളും ലംബ ലെവൽ കാണുന്നതിന് 2 വോയ്ലുകളും ഈ ഉപരിതലത്തെയും അടിസ്ഥാനമാക്കി ഇത് കാലിബ്രേറ്റ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ നിർദ്ദിഷ്ട ഉപകരണം രണ്ട് ഉപരിതലങ്ങൾക്കും കാലിബ്രേറ്റ് ചെയ്യുന്നു പൊതു സ്പിരിറ്റ് ലെവൽ ഒരു ഉപരിതലത്തെ മാത്രം അടിസ്ഥാനമാക്കി കാലിബ്രേറ്റ് ചെയ്യുന്നു ഇത് ഈ ഉപരിതലമോ റഫറൻസ് ഉപരിതലമോ ആണെങ്കിൽ അത് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉപരിതലത്തെ അടിസ്ഥാനമാക്കി ഇത് എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ടതുണ്ട് എനിക്ക് താഴത്തെ വശത്ത് നിന്ന് ഒരു ലെവൽ കാണണമെങ്കിൽ ഇത് കാലിബ്രേഷൻ അല്ല അല്ലെങ്കിൽ ഇത് റഫറൻസ് ഉപരിതലമല്ല ഇത് ഉപയോഗിക്കുന്നത് നല്ലൊരു പരിശീലനമായിരിക്കില്ല ഇത് റഫറൻസ് ഉപരിതലമായതിനാൽ എനിക്ക് ചുവടെ കാണണമെങ്കിൽ അത് തലകീഴായി മാറ്റണം കൂടാതെ സ്പിരിറ്റ് ലെവൽ കാണുന്നതിന് ഈ റഫറൻസ് ഉപരിതലത്തെ അടിസ്ഥാനവുമായി സ്പർശിക്കേണ്ടതുണ്ട് ശരി അതിനാൽ ഇത് ഒരു വോയ്ലിനുള്ള ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ വോയിൽ എല്ലായ്പ്പോഴും നേരായ സിലിണ്ടറല്ല ആകൃതിയിൽ ചെറിയ കോൺവെക്സ് വോയിലാണ് ഞാൻ ഇത് എന്റെ സ്പ്രിറ്റ് ലെവലായി വരച്ചാൽ ഇത് 12 ഇഞ്ച് ആണ് കൂടാതെ 2 വരികൾക്കിടയിലുള്ള ദൂരമുള്ള ഈ വോയിൽ ആ 2 അടയാളങ്ങളും അവിടെയുണ്ട് 2 കറുത്ത വരകൾ വോയിലിൽ ഉണ്ട് 2 കറുത്ത വരകളുണ്ടെന്ന് നിങ്ങൾക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും ശരി ബബിൾ ഈ കറുത്ത വരകൾക്കുള്ളിൽ തന്നെ തുടരണം പാരലാക്സ് പിശക് ഉണ്ടാകേണ്ടതില്ല അതിനാൽ ക്യാമറയ്ക്ക് സമാന്തരമായി ഇത് സ്ഥാപിക്കാം ശരി ബബിൾ കൃത്യമായി 2 വരികളിലാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരി പാരലാക്സ് പിശക് കാരണം ഇത് ശരിയായി വിന്യസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ശരി ഇത് ഈ വശത്ത് അല്പം വിന്യസിച്ചിരിക്കുന്നതായി തോന്നുന്നു ഈ ദിശ ശരി പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് ലംബമായി ക്യാമറയ്ക്ക് സമാന്തരമാക്കുകയാണെങ്കിൽ ഇത് ശരിയായി സ്പർശിക്കുന്നു ഈ ഉപരിതല പ്ലേറ്റ് ശരിയായി ഗ്രൌണ്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നേരായതോ നിലത്തിന് സമാന്തരമോ ആണ് ഈ അടയാളങ്ങൾ സാധാരണയായി 2 മുതൽ 10 മില്ലീമീറ്റർ വരെയാണ് ഇപ്പോൾ വോയ്ലെ ഇതുപോലുള്ള ഒരു നേരായ സിലിണ്ടറല്ല ഇവിടെ അടയാളങ്ങൾ ഉണ്ട് ഇവിടെ ഒരു ബബിൾ ഉണ്ട് ഇത് ഒരു സ്റ്റേഷൻ ആണെങ്കിൽ ഇത് ഇതുപോലെ ചരിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബബിൾ ഇവിടെ ഇടം കണ്ടെത്തുകയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും അതിനാൽ വോയിൽ ആകൃതി ഇതുപോലെയായിരിക്കണം ഇത് ഒരുതരം ഓവൽ ആകൃതിയാണ് മാത്രമല്ല ബബിൾ എല്ലായ്പ്പോഴും സ്ഥിരമായ ഇടം കണ്ടെത്താൻ ശ്രമിക്കും നിങ്ങൾ അത് മുകളിലേക്കും താഴേക്കും നീക്കുമ്പോൾ അതിനെ ഏതെങ്കിലും കോണിൽ ചരിഞ്ഞാൽ ബബിൾ അത് സ്ഥാനത്തെ മാറ്റും പക്ഷേ അത് ഒരു ലെവലിൽ അല്ലെങ്കിൽ സമാന്തരമാകുമ്പോൾ ബബിൾ ഈ സ്ഥാനത്ത് തുടരും എന്നിരുന്നാലും ഇത് നേരെആയിരുന്നെങ്കിൽ അത് ഇവിടെ നിൽക്കില്ല അല്ലെങ്കിൽ എവിടെ പോകാമെന്നതിന് ഉറപ്പില്ല ഇവിടെ ഉള്ള 2 അടയാളങ്ങൾ വലുത് ദൂരമാണ് അതായത് കുമിളയ്ക്ക് കൂടുതൽ എളുപ്പത്തിൽ നീങ്ങാനും ചെറിയ ചലനങ്ങളോട് കൂടുതൽ സെൻസിറ്റീവായി പ്രതികരിക്കാനും കഴിയും നിങ്ങൾക്ക് ഇത് സിലിണ്ടറിലേക്കുള്ള റഫറൻസായി എടുക്കാം ഇത് ഒരു കേന്ദ്ര പോയിന്റാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു സെന്റർ പോയിന്റാണ് ഇത് ഇവിടെ ഒരു സർക്കിളാണ് ഇത് മറ്റൊരു സർക്കിളാണെന്ന് ഞാൻ പറയട്ടെ ഈ ദൂരം വലുതാണെങ്കിൽ കൂടുതൽ സെൻസിറ്റീവ് ആണ് സ്പിരിറ്റ് ലെവൽ സ്പിരിറ്റ് ലെവലിന്റെ തത്വം ഉപയോഗിച്ച് എനിക്ക് ഇത് വിശദീകരിക്കാൻ കഴിയും എന്ത് സംഭവിക്കും ബബിൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതാണ് ബബിൾ ശരി ഇത് ബി മുതൽ ബി ഡാഷ് വരെയുള്ള സ്ഥാനത്തെ മാറ്റുന്നു ഒപ്പം മാറുന്ന ഈ സ്ഥാനം നീളം l ന് തുല്യവുമാണ് വോയ്ലിന്റെ ദൂരം R എന്ന് പറയട്ടെ ഇത് കേന്ദ്രവും ആരം അല്ലെങ്കിൽ റേഡിയസ് R ഉം ആണ് ഈ കോണാണ് ബബിളിന്റെ 2 അറ്റങ്ങൾ അല്ലെങ്കിൽ രേഖയുടെ 2 അറ്റങ്ങൾ സർക്കിളിന്റെ മധ്യഭാഗത്ത് നിർമ്മിക്കുന്ന കോണാണ് ഞാൻ ഈ കോണിനെ എന്ന് വിളിക്കുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കും ഒരു സ്പിരിറ്റ് ലെവൽ ഇവിടെ നിലത്തിന് സമാന്തരമായിരിക്കുമ്പോൾ ചലനമൊന്നുമില്ല ഞാൻ കുറച്ച് ചലനം നടത്തുകയാണെങ്കിൽ ഈ ചലനം യഥാർത്ഥത്തിൽ ഈ ചലനമാണ് ഇതിന് കാരണമെന്ന് ഞാൻ പറയട്ടെ α കാരണം ഈ വരി അടിത്തറയ്ക്ക് ലംബമാണ് അതിനാൽ α കോണിൽ ചലിപ്പിക്കുമ്പോഴെല്ലാം ബബിൾ ഒരു തുല്യ കോണിലേക്ക് നീങ്ങും ഞാൻ അതിനെ ഏതെങ്കിലും കോണിൽ നീക്കുമ്പോൾ ബബിൾ അതേ കോണിനെ വോയിൽ കേന്ദ്രവുമായി നിർമ്മിക്കും അതിനാൽ ഈ കോണും അടിസ്ഥാനമുള്ള ഈ കോണും സമാനമാണ് ഈ സ്പിരിറ്റ് ലെവൽ ചരിഞ്ഞ കോണാണ് ഞാൻ ഇത് ഇതുപോലെ ചരിച്ചാൽ ശരി ഞാൻ എന്റെ പെൻസിൽ നിശ്ചലമായി സൂക്ഷിക്കും ഞാൻ ഇത് നേരെയാക്കുന്നു ശരി ഈ കോണും വോയിൽന്റെ മധ്യഭാഗത്ത് ബബിൾ നിർമ്മിക്കുന്ന ഈ കോണും തുല്യമാണ് ഈ തത്വത്തെ അടിസ്ഥാനമാക്കി സ്പിരിറ്റ് ലെവൽ പ്രവർത്തിക്കുന്നു ഇത് വരി l ആണെങ്കിൽ ഏത് ഘട്ടത്തിലും അത് മാറുന്നുവെങ്കിൽ അവസാനം അത് എയിൽ നിന്ന് എയിലേക്ക് മാറുന്നുവെന്നും ഈ ഉയരം എച്ച് ആണെന്നും നിങ്ങൾക്കറിയാം l ബൈ R ന് തുല്യമാണ് ശരി θ lR hL × α l R ×hL ആർക്കിന്റെ നീളം യഥാർത്ഥത്തിൽ എൽ ഇവിടെ ആർക്ക് ആണ് ആർക്ക് നീളം ഒരു നീളത്തിന് തുല്യമാണ് അല്ലെങ്കിൽ ഇതാണ് പൊതു ഫോർമുല അതിനാൽ ഇവിടെ കോൺ α ആണ് ഇത് R എൽ ന് തുല്യമാണ് ശരി ഈ l ആർക്ക് നീളം R ആണ് ദൂരം അതിനാൽ h എന്നത് L ലേക്ക് α എന്നതിന് തുല്യമാണെന്ന് നമുക്ക് കാണാം ഇത് L ബൈ R h ന് തുല്യമാണ് ഇത് സമവാക്യം 1 ഉം ഇത് സമവാക്യം 2 ഉം ആണ് ഇത് 3 എന്ന സമവാക്യം ഉരുത്തിരിയുന്നു ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്പിരിറ്റ് ലെവെലിന്റെ സംവേദനക്ഷമത കണ്ടെത്താനാകും സംവേദനക്ഷമത സെക്കന്റുകളുടെ ക്രമത്തിൽ ആകാം ഇത് കുറച്ച് സെക്കൻഡുകൾ ആകാം ശരി അതിനാൽ ഈ ബബിൾ എപ്പോൾ നീങ്ങുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ വയർ ഉണ്ടായിരുന്നു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളന്ന വ്യാസം ഈ വയറിന്റെ വ്യാസം 4 മില്ലീമീറ്ററാണ് സ്പിരിറ്റ് ലെവലിന്റെ അവസാനത്തിൽ ഈ വയർ ഇടാൻ ഞാൻ ശ്രമിക്കാം അങ്ങേയറ്റത്തെ അറ്റത്ത് ഇടുക ബബിളിൽ എന്തെങ്കിലും ചലനം കണ്ടെത്തുന്നുണ്ടോ ബബിൾ അടയാളപ്പെടുത്തലിനെ മറികടന്നിട്ടുണ്ടോ അതെ അത് മറികടന്നു അതിനാൽ ഈ 4 മില്ലീമീറ്റർ അത് നീക്കാൻ വളരെ വലിയ ഉയരമാണ് ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് ചലനത്തിലാണ് ബബിൾ നീങ്ങാൻ തുടങ്ങുന്നത് എന്നതാണ് സംവേദനക്ഷമത ഞാൻ ഇത് ഇതുപോലുള്ള ചെറിയ ചലനമാക്കി മാറ്റുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഞാൻ വളരെ ചെറിയ ഒരു ചലനം നടത്തുന്നു അത് അനങ്ങുന്നില്ല അത് വരയെ അടയാളപ്പെടുത്തുന്നില്ല അതിനാൽ ഫീലർ ഗേജ് ഉപയോഗിച്ചും എനിക്ക് ഇത് പരിശോധിക്കാൻ കഴിയും ഇതാണ് ഫീലർ ഗേജ് 5 80 5 100 80 100 എന്നിങ്ങനെ വിവിധ അളവുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും മികച്ച ലീഫ് 5 ബൈ 100 മില്ലിമീറ്റർ വരെയാണ് ഈ 5 ബൈ 100 എംഎം ലീഫ് അവസാനം ഇവിടെ ഇടാൻ ശ്രമിക്കാം കുമിളയിൽ ചലനം കണ്ടെത്തുന്നുണ്ടോ ചലനമൊന്നുമില്ല അതായത് 5 ബൈ 100 മില്ലിമീറ്റർ വരെ അത് നീങ്ങുന്നില്ല ഇതിന്റെ കനം കൂട്ടാൻ ഞാൻ ശ്രമിക്കാം ഈ നീളം ഞാൻ മറ്റൊരു ലീഫ് ഇവിടെ ഇട്ടു ഇത് യഥാർത്ഥത്തിൽ 25 100 വരെയാണ് ഇത് 0 25 ഇപ്പോഴും ചലിക്കുന്നില്ല ഞാൻ അത് മാറ്റിയെടുക്കും ഏറ്റവും കട്ടിയുള്ള ലീഫ് 80 100 വരെ ക്രമത്തിലാക്കാൻ ഞാൻ ശ്രമിക്കാം 80 100 വരെ 0 8 ശരി ഏറ്റവും വലിയ ലീഫ് കുമിളയിൽ എന്തെങ്കിലും ചലനം കണ്ടെത്തുന്നുണ്ടോ അതെ ബബിൾ സ്പർശിച്ചു അത് ഇവിടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഇവിടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുകയാണ് 0 8 സ്വീകാര്യമല്ലെന്നും 0 25 സ്വീകാര്യമാണെന്നും ഇതിനർത്ഥം മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ ഞാൻ ശ്രമിക്കാം ഞാൻ ഹിറ്റ് ആൻഡ് ട്രയൽ രീതി മാത്രമാണ് ചെയ്യുന്നത് 0 5 തിരഞ്ഞെടുക്കാൻ എന്നെ അനുവദിക്കുക 5 ആണ് ശരി 0 5 എടുക്കാൻ ശ്രമിക്കാം 5 സ്വീകാര്യമല്ല ഇത് ഇവിടെ ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ ഇവിടെ 0 3 തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം ഇത് സ്വീകാര്യമാണെന്ന് ഞാൻ കരുതുന്നു 3 സ്വീകാര്യമാണ് ശരി 0 3 സ്വീകാര്യമാണ് 0 5 സ്വീകാര്യമല്ല ഞങ്ങൾക്ക് 0 4 മില്ലീമീറ്റർ ലീഫ് ലഭ്യമല്ല നമുക്ക് 0 3 മില്ലീമീറ്റർ കണ്ടെത്താൻ കഴിയും ഈ ചലനം ഇത് നീളമാണ് h യഥാർത്ഥത്തിൽ ഞാൻ ഈ ഉയരത്തിലേക്ക് മുകളിലേക്കും താഴേക്കും നീക്കുന്നുവെന്ന് ശരി 3 മില്ലീമീറ്റർ സ്വീകാര്യവും 0 5 മില്ലീമീറ്റർ സ്വീകാര്യവുമല്ല എനിക്ക് ശരാശരി എടുത്ത് 0 4 മില്ലിമീറ്റർ ലഭിക്കും ശരി അപ്പോൾ h 0 4 മില്ലിമീറ്ററിന് തുല്യമാണ് ഈ നീളം l 12 ഇഞ്ചിന് തുല്യമാണ് ഇത് 300 മില്ലിമീറ്ററിന് തുല്യമാണ് ശരി α ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല ശരി നമുക്ക് 2 എന്ന സമവാക്യ നമ്പർ ഉപയോഗിച്ച് കണക്കാക്കാം നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് l ബൈ h ന് തുല്യമാണ് ഇപ്പോൾ ഇത് 0 4 ബൈ 300 ആണ് ഇത് 0 00133 റേഡിയൻസിന് തുല്യമാണ് ശരി 00133 radians ഇത്രയും റേഡിയൻസും ഇത് α ശരി R ന്റെ മൂല്യം അത് വോയിലിന്റെ വക്രതയുടെ കേന്ദ്രമാണ് ഇതാണ് വോയിലിന്റെ വക്രത ഇത് മധ്യത്തിൽ എത്തുമ്പോൾ ഇത് വ്യത്യാസപ്പെടുന്നു വോയിൽ വക്രതയുടെ ദൂരം ഇതാണ് വോയിലെങ്കിൽ ഇതാണ് വോയിൽ ഉപരിതലം ഇവിടെ നൽകിയിരിക്കുന്ന ഈ R വക്രതയുടെ ആരം ഇത് 30 മുതൽ 10000 മില്ലീമീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു ചിലപ്പോൾ വക്രത ഇല്ല ചില സമയങ്ങളിൽ ഇത് 100 മീറ്ററും ഉറപ്പാക്കാം ശരി ഞാൻ ഇവിടെ 10 മീറ്റർ ഇട്ടു ശരി ഇത് സാധാരണയായി ഇതുപോലെ വ്യത്യാസപ്പെടുന്നു ശരി 4 മില്ലീമീറ്റർ ചലനം നീക്കുമ്പോൾ നമുക്ക് സംവേദനക്ഷമത കണക്കാക്കാം ഇത് 0 00133 റേഡിയൻസിൽ പൊതിഞ്ഞ കോണാണ് ശരി അതിനാൽ 1 മില്ലീമീറ്ററിന് 1 മില്ലീമീറ്റർ ചലനത്തിന് ആംഗിൾ 0 0133 മുതൽ 0 0032 ന് തുല്യമായിരിക്കും 4 mm 0 1 mm 0 ഇത് ഈ ഉപകരണത്തിന്റെ സംവേദനക്ഷമത ആകാം ശരി എന്നിരുന്നാലും ഇത് കൃത്യമായ കണക്കുകൂട്ടലല്ല ഞങ്ങൾ ഇപ്പോൾ ഒരു ഹിറ്റ് ട്രയൽ രീതി ഉണ്ടാക്കി ഉപകരണത്തിന്റെ സംവേദനക്ഷമത ഈ ബന്ധം ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവലിന്റെ ഈ തത്വം ഉപയോഗിച്ച് കണക്കാക്കാം സ്പിരിറ്റ് ലെവലിനുള്ള മറ്റ് മുൻകരുതലുകൾ അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഈ സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് ഈ ദിശയിലുള്ള ലെവൽ പരിശോധിക്കാൻ കഴിയും കൂടാതെ ബബിളിന്റെ ആ സ്ഥാനം മാറുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ നമ്മൾ അതിനെ 180 ഡിഗ്രി തിരിക്കുന്നു അതിനാൽ സ്പിരിറ്റ് ലെവൽ ഉപകരണം ശരിയായി കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇത് നമ്മോട് പറയും ഇത് ഒരു കാര്യമായിരുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ഇത് എല്ലായ്പ്പോഴും റഫറൻസ് ഉപരിതലമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഉപരിതലം അടിയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയില്ല ഇത് ഇങ്ങനെയായിരിക്കണം അതിനാൽ ഇത് രേഖകൾക്കിടയിൽ ആണെന്ന് ശരിയായി കാണണം പാലിക്കേണ്ട ചില മുൻകരുതലുകൾ ഇവയാണ് ലൈനുകൾ ലംബമായ ലൈനുകൾ എന്നിവ അടയാളപ്പെടുത്താൻ നമുക്ക് ഇത് ഉപയോഗിക്കാം ലംബ അടയാളങ്ങളും ചിലപ്പോൾ സ്പിരിറ്റ് ലെവലിൽ ചില വോയിലുകൾ ഇവിടെ 45 ഡിഗ്രിയിൽ ചായുന്നു ചിലപ്പോൾ വോയ്ലുകളും ഇവിടെ 45 ഡിഗ്രിയിൽ ആയിരിക്കും അതിനാൽ 45 ഡിഗ്രി ആംഗിൾ നേരിട്ട് 45 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്താൻ സഹായിക്കും ഇതാണ് സ്പിരിറ്റ് ലെവലിന്റെ ഉപയോഗം നമ്മൾ ചർച്ച ചെയ്ത ഉപകരണങ്ങളിലൊന്നായ സ്പിരിറ്റ് ലെവലിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഇത് ഞാൻ ഇവിടെ ഒരു ഇടവേള എടുക്കുന്നു കൂടാതെ ലബോറട്ടറി പ്രകടനത്തിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയും അവിടെ മറ്റൊരു ഉപകരണം ചർച്ചചെയ്യുകയും ചെയ്യും